അതിനാൽ നമ്മൾ അടുത്തതായി എന്തുചെയ്യും നമ്മൾ ലളിതമായ ഒരു കാര്യം നോക്കുകയാണ് വളരെ വളരെ ലളിതമായ ആന്റിനയെ ഹെർട്സ് ഡൈപോൾ എന്ന് വിളിക്കുന്നു ഈ J എന്ന ടേo വളരെയധികം ലളിതമാണ് അല്ലേ അതിനാൽ ഈ അനുമാനത്തിന്റെ ഒഴുക്കിൽ ഇത് നമുക്ക് പരിശീലനം നൽകും ശരി പിന്നീട് കുറച്ചുകൂടി രസകരമായ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ വരും അത് ഞാൻ നിങ്ങൾക്ക് നൽകിയാൽ അപ്പോൾ ഞാൻ പറയുന്ന ഈ ഹെർട്സ് ഡൈപോൾ എന്താണ് അത് വളരെ വളരെ ചെറിയ അളവിലുള്ള ഒരു ആന്റിനയാണ് വളരെ വളരെ ചെറിയ അളവ് അതിനാൽ അതിന് മുകളിലുള്ള കറന്റ് സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷനല്ല വെറും കുറച്ച് മൂല്യം മാത്രമാണ് അതുകൊണ്ടാണ് എനിക്ക് സ്റ്റെപ്പ് 1 2 3 എന്നിവ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഞാൻ ഒരു യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ആന്റിനയിലെ കറന്റ് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല അതിനാൽ ഞാൻ ആദ്യം അത് പരിഹരിക്കണം കൂടാതെ കറന്റ് കണ്ടെത്തണം തുടർന്ന് ഇവ ആവർത്തിക്കണം അതിനാൽ അതാണ് ഇവിടെ ചേർത്തിരിക്കുന്ന ഘട്ടം 0 അവിടെയാണ് കമ്പ്യൂട്ടേഷണൽ EM നമ്മെ സഹായിക്കുന്നത് അല്ലേ അതിനാൽ നമുക്ക് വളരെ ലളിതമായ ഈ ആന്റിന നോക്കാം ഇതാണ് നിങ്ങളുടെ ഹേർട്സ് ഡൈപോൾ അല്ലേ അതിനാൽ നമുക്ക് ഇവിടെ A യുടെ നിർവചനത്തിലേക്ക് തിരിഞ്ഞുനോക്കാം ഇതാണ് A യുടെ ഒരു നിർവചനം അതിനാൽ ഇപ്പോൾ എന്താണ് ഹെർട്സ് ഡൈപോൾ ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ ഇതാണ് എന്റെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം ഞാൻ ഇവിടെ വളരെ ചെറുതും നീളമുള്ളതുമായ ഒരു വയർ ഇട്ടു അത് വളരെ ചെറുതായതിനാൽ അവിടെയുള്ള കറന്റ് സ്ഥിരമായ ഒരു ഫംഗ്ഷൻ സ്പേസ് ആയിരിക്കേണ്ടതില്ലെന്ന് എനിക്ക് പറയാൻ കഴിയും ശരിയല്ലേ അതിനാൽ ന്റെ xyz ഫംഗ്ഷൻ ആയി എന്താണ് ഈ കറന്റ് എന്ന് എനിക്ക് ചോദിക്കാം അപ്പോൾ നമുക്ക് അതിനെ എന്ത് വിളിക്കാം എങ്ങനെ നമ്മൾ അത് എഴുതും എനിക്ക് ഇത് xyz ന്റെ ഫംഗ്ഷൻ ആയി എഴുതണം അതിനാൽ കുറച്ചുകൂടി കൃത്യമായി പറയുക കറന്റ് അവിടെ ഉണ്ടായിരിക്കണം ഡെൽറ്റ ഫങ്ക്ഷനുകളും കാരണം അത് വളരെ വളരെ ചെറുതാണ് ശരിയല്ലേ അതിനാൽ എന്താണ് ഇതിന്റെ x ആശ്രിതത്വo ഇത് x ൽ ഒരു ഡെൽറ്റയും y ൽ ഡെൽറ്റയും ആകും അതിനാൽ ഇത് z ൽ ഒരു ഡെൽറ്റ ആയിരിക്കില്ല കാരണം ഒരു പോയിന്റ് ഉണ്ടായിരിക്കും ഇത് ഒരു ലൈൻ കറന്റ് അല്ല ശരിയല്ലേ അതിനാൽ ഇത് ഒരു വളരെ ചെറിയ സ്റ്റെപ്പ് ഫംഗ്ഷൻ പോലെയായിരിക്കും അതിനാൽ ഒരു തീരുമാനത്തിൽ എത്താനായി നമുക്ക് പറയാം ഇത് വളരെ നേർത്തതാകുന്നു അനന്തമായി നേർത്തത് കൂടാതെ ഒരു ദിശയിൽ മാത്രം പരിമിതമായ അളവുകളുള്ളതും ഇപ്പോൾ ഇതൊരു 3D പ്രശ്നമായതിനാൽ എനിക്ക് 3D ഗ്രീനിന്റെ ഫംഗ്ഷൻ Green's function ആവശ്യമാണ് അതിനാൽ 3D യിൽ എന്റെ ഗ്രീനിന്റെ ഫംഗ്ഷൻ Green's function എന്തായിരുന്നു നിങ്ങൾ ഓർക്കുന്നില്ലേ

അതിനാൽ ഇവിടെ നിന്ന് എനിക്ക് ഈ ഹെർട്സ് ഡൈപോളിനെ A എന്ന് എഴുതാം അത് നമ്മൾ J യുടേയും ഗ്രീനിന്റെ ഫംഗ്ഷൻ Green's function കോൺവൊല്യൂഷൻ ആയി എഴുതിയതാണ് ഇപ്പോൾ ഈ കൺവല്യൂഷനിൽ 3 ഇന്റഗ്രലുകൾ xyz ഉണ്ടായിരിക്കും x y വലതുഭാഗത്ത് പോപ്പ് ഔട്ട് ചെയ്യും എനിക്ക് z മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അല്ലേ അതിനാൽ ഇത് ഇങ്ങനെ പരിണമിക്കും

അപ്പോൾ ഈ ടേo ലളിതമാക്കുന്നതിനുള്ള ന്യായമായ മാർഗം എന്തായിരിക്കും ഓർക്കുക ഇത് വളരെ വളരെ ചെറുതാണ് അതാണ് ഇതിനെ ഒരു ഹെർട്സ് ഡൈപോൾ ആക്കുന്നത് എനിക്ക് ഇവിടെ എന്ത് മതിപ്പുകണക്ക് ചെയ്യാം ഇവിടെ R എന്നത് ഇതാണെന്ന് ഓർക്കുക വിദ്യാർത്ഥി ടെയ്ലർ അപ്പ്രോക്സിമേഷൻ ടൈയ്ലർ അപ്പ്രോക്സിമേഷൻ അതിലും ലളിതമായ ഒന്നാണ് അപ്പോൾ എന്താണ് r അതിനാൽ നിങ്ങൾ ഈ ദൂരത്തേക്ക് നോക്കുന്നു ഈ ദൂരം ഈ ദൂരങ്ങൾ എല്ലാം കൺവല്യൂഷനിൽ ആണ് വിദ്യാർത്ഥി സ്ഥിരാങ്കം r സ്ഥിരാങ്കം ഇത് ഏകദേശമാക്കുക അതിനാൽ എനിക്ക് അത് ഊഹിക്കാം വിദ്യാർത്ഥി സ്ഥിരാങ്കം ഇത് ഒരു സ്ഥിരാങ്കം അതിനാൽ നമുക്ക് ഇവിടെ കിട്ടിയതെല്ലാം സ്ഥിരാങ്കങ്ങൾ ആണ് അതെ ഇപ്പോൾ എല്ലാം ശരിയാണെന്ന് ഞാൻ വിചരിക്കുന്നു ഇത് ഞാൻ എഴുതും ഒരാൾ ഇവിടെ വിചാരിക്കുന്നത് അതിനാൽ അടുത്തതായി ഞാൻ ചെയ്യേണ്ടത് അത് കണ്ടെത്തുക എന്നതാണ് ഞാൻ ചെയ്തിരുന്ന ഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞുനോക്കുക ഇപ്പോൾ എനിക്ക് എന്റെ J ഉണ്ട് ഞാൻ ഉദ്യേശിച്ചത് എനിക്ക് എന്റെ J ഉണ്ട് എനിക്ക് എന്റെ G ഉണ്ട് ഞാൻ A കണക്കാക്കി അടുത്ത ഘട്ടം എന്തായിരിക്കും കണക്കാക്കുന്നത് വിദ്യാർത്ഥി H H ശരി അതിനാൽ H ന് ഞാൻ ഉപയോഗിക്കുന്ന ബന്ധം എന്താണ് ശരിയാണ് വിദ്യാർത്ഥി അതുകൊണ്ട് അതിനാൽ നമുക്ക് ഇതിനെ സ്റ്റെപ്പ് 2 എന്ന് വിളിക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കണം ഇത് ചെയ്യുന്നതിന് ലളിതമായ വഴികളുണ്ട് കൂടാതെ ഇത് ചെയ്യുന്നതിന് വളരെ സങ്കീർണ്ണമായ ചില വഴികളും ഉണ്ട് ഇതിനെക്കുറിച്ചുള്ള പല ലേഖനങ്ങളിലും സങ്കീർണ്ണവും ലളിതവുമായ വഴികൾ നമ്മൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് ചെയ്യുന്നതിന് നമ്മൾ ഒരു ഗംഭീര തരംഗം എടുക്കും അതിനാൽ ഇപ്പോഴത്തെ കേൾ ഇത് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്താണ് ഗോളാകൃതിയാണ് നിങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ r എന്ന് എന്ന് എഴുതുകയും കൂടാതെ കാർട്ടീഷ്യൻ ചെയ്യുക അതിൽ കൂടുതൽ ജോലി ഉണ്ടാവും അതിനാൽ കേൾ നമ്മൾ യഥാർത്ഥത്തിൽ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാം അതിനാൽ ഇത് ഒരു പ്രോഡക്റ്റ് നിയമം പോലെ വെക്റ്റർ കാൽക്കുലസ് ഐഡന്റിറ്റിയാണ് അതിനാൽ ഗോളാകൃതിയിലുള്ള കോർഡിനേറ്റുകളിൽ ഒരു കേൾ എടുക്കുന്നതിന് പകരം ഈ ലളിതമായ പരിഷ്ക്കരണത്തിലൂടെ ശ്രദ്ധിക്കുക ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് എടുക്കേണ്ടത് ഗ്രേഡിയന്റ് മാത്രം അപ്പോൾ കേൾ കണക്കുകൂട്ടാൻ വളരെ എളുപ്പമാണ് ശരിയല്ലേ അതിനാൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഗോളാകൃതിയിലുള്ള കോർഡിനേറ്റുകളിലെ ഗ്രേഡിയന്റും ഇതാണ് അതിനാൽ നമുക്ക് അത് എഴുതാം

ഇപ്പോൾ ഇവിടെ എന്താണ് ചോദിക്കുന്നത് എനിക്ക് എന്ത് ലഭിക്കും വിദ്യാർത്ഥി ആദ്യം അതിനാൽ കൂടുതൽ പ്രധാനമായി ഇത് ശരിയായ ക്രോസ് പ്രോഡക്റ്റ് ആണ് കൂടാതെ ദിശയും ആയിരിക്കും ഈ ഗോളാകൃതിയിലുള്ള ഏതൊക്കെ കോർഡിനേറ്റുകൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഏതു വഴിക്കാണ് നിങ്ങളുടെ താഴേക്ക് മൂന്നാമത്തെ ദിശ ഏത് വഴിയാണ് ബോർഡിലേക്കാണോ അതോ ബോർഡിൽ നിന്ന് പുറത്തേക്കാണോ ബോർഡിലേക്ക് ശരിയല്ലേ അതിനാൽ അത് എല്ലായ്പ്പോഴും എവിടെ ചൂണ്ടിക്കാണിക്കും അതിന്റെ വ്യാപ്തിയുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അതിനാൽ ഈ കാന്തികക്ഷേത്രം അങ്ങനെ ആയിത്തീരുന്നു അതിനാൽ നമുക്ക് ലഭിച്ച കാരണം ഇത് നേടാൻ ഞാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ടോ ഇല്ല ശരിയാണ് കാരണം നിങ്ങൾ ഈ ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തിയതുകൊണ്ടാണ് ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യില്ല നിങ്ങൾക്കറിയാം ഗോളാകൃതിയിലുള്ള കോ ഓർഡിനേറ്റുകളിൽ കേൾ ഇടാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വളരെ കൂടുതൽ ഓൾജിബ്ര ചെയ്യെണ്ടിവരും ഇത് ഒരു സ്ഥിരാങ്കത്തിന്റെ 0 കേൾ ആണ് അപ്പോൾ ഉദാഹരണത്തിന് ബാലാനിസ് അത് ചെയ്യുന്ന രീതി നോക്കുകയാണെങ്കിൽ അദ്ദേഹം അത് ചെയ്യുന്നത് ഏറ്റവും മികച്ച കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അല്ലാത്തതിനാൽ കുറച്ച് സ്റ്റെപ്പുകൾ കൂടി എടുക്കുന്നു എന്നാൽ ഇതിന്റെ മറ്റൊരു രചയിതാവ് മറ്റൊരു പുസ്തകം അദ്ദേഹം ഈ നല്ല രീതിയിൽ ചെയ്യുന്നു അതിനാൽ ജ്യാമിതിയിലൂടെ ഈ H എല്ലായ്പ്പോഴും ലേക്ക് വിരൽ ചൂണ്ടുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ എനിക്ക് H ലഭിച്ചുകഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എന്റെ വൈദ്യുത മണ്ഡലം ലഭിക്കും എടുക്കുന്നതിലൂടെ വിദ്യാർത്ഥി കേൾ കേൾ ശരിയാണ് അതിനാൽ കേൾ റിലേഷനിലൂടെ എനിക്ക് ഇവിടെ നിന്ന് E ലഭിക്കും അതിനാൽ ഇത് തുടർന്നുള്ള മൊഡ്യൂളിൽ ഈ ഡെറിവേഷൻ നമ്മൾ പൂർത്തിയാക്കും അതിനാൽ വെറുതെ അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അവസാന കാര്യം ഈ കാന്തികക്ഷേത്രത്തിന് രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് ഒന്നിന് 1r ആശ്രിതത്വമുണ്ട് മറ്റൊന്നിന് ഒരു ആശ്രിതത്വമുണ്ട് ഞാൻ വസ്തുവിൽ നിന്ന് വളരെ അകലെ പോയാൽ ഏത് ടേമാണ് ആധിപത്യം സ്ഥാപിക്കുക വിദ്യാർത്ഥിr വിദ്യാർത്ഥി r 1r ആധിപത്യം സ്ഥാപിക്കും ശരിയല്ലേ അതിനാൽ ഊഹിക്കാതെതന്നെ വൈദ്യുത മണ്ഡലത്തിനും ഇതുതന്നെ സംഭവിക്കുമെന്ന് ഡൈപോളിൽ നിന്ന് വളരെ അകലെയുള്ള ഫീൽഡ് 1r പദത്താൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും അതിനാൽ 9 ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും കാര്യങ്ങളുമായി ഇത് വിപരീതമാണോ ഞാൻ പോയിന്റ് ചാർജ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എത്ര ദൂരെയുള്ള വൈദ്യുത മണ്ഡലം എന്താണെന്ന് കൊളംബിന്റെ നിയമം പറയുന്നു ഒരു ഡൈപോളിന് ശരിയല്ലേ അതെ എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഹെർട്സ് ഡൈപോൾ ആന്റിനയുടെ ഈ ചെറിയ ബിൽഡിംഗ് ബ്ലോക്കിൽ നിന്ന് 1r അകലെയുള്ള വൈദ്യുതകാന്തിക ഫീൽഡുകൾ എനിക്ക് 1r നൽകുന്നു ഓക്കെ അതിനാൽ ദൂരെയുള്ള ഫീൽഡുകൾ ഫോം 1r ആണ് നമ്മൾ ഇവിടെ പോകുമ്പോൾ ഇത് പ്രധാനമാണ് ഏത് ആന്റിനയ്ക്കും ഇത് സത്യമാണ് ഏത് വിചിത്രമായ ആകൃതിയിലുള്ള ആന്റിനയും അതിൽ നിന്ന് വളരെ അകലെ പോയാൽ ഫീൽഡുകൾ 1r ആണ്